ആശംസകൾ മൊഡ്യൂൾ 2 യൂണിറ്റ് 8 ലേക്ക് സ്വാഗതം അസസ്മെന്റ് പാറ്റേണുകളും അസസ്മെന്റ് ഉപകരണങ്ങളും സിഒകൾ കൈവരിക്കുന്നതിനുള്ള ടാർഗെറ്റുകൾ നിർണ്ണയിക്കുന്നതിൽ സാങ്കേതികവിദ്യക്കുള്ള പങ്കും അവയുടെ സ്വഭാവവും നമ്മൾ കണ്ടു ഈ യൂണിറ്റിന്റെ ഔട്കമുകൾ ഇവയാണ് ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിനായി ഒരു അസ്സസ്സ്മെന്റ് പാറ്റേണും അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളും രൂപകൽപ്പന ചെയ്യുന്ന പ്രക്രിയ മനസിലാക്കുക എന്നത് അസ്സസ്സ്മെന്റ് രീതി സ്ഥാപനങ്ങൾ തോറും ഗണ്യമായി വ്യത്യാസപ്പെടുന്നു വിവിധ സർവകലാശാലകളിലും വിവിധ സ്ഥാപനങ്ങളിലും അസ്സസ്സ്മെന്റ് നടപ്പിലാക്കുന്ന രീതിയിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് എന്നാൽ വളരെ വിശാലമായി നമുക്ക് അസ്സസ്സ്മെന്റിനെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം കണ്ടിന്യുവസ് ഇന്റെർണൽ ഇവാല്യുവേഷൻ സെമസ്റ്റർ എൻഡ് എക്സാമിനേഷൻ ഓരോ സ്ഥാപനങ്ങൾ ഇവ രണ്ടിനും നൽകുന്ന വെയിറ്റേജ് വ്യത്യസ്തമാണ് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ടയർ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സാധാരണഗതിയിൽ സിഐഇയ്ക്ക് നൽകുന്ന വെയിറ്റേജ് 20 ഉം സെമസ്റ്റർ എൻഡ് പരീക്ഷയുടെ വെയിറ്റേജ് 80 ഉം ആണ് അതായത് 2080 എന്നാൽ അത് സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 6040 വരെ വ്യത്യാസപ്പെടാം അതിനാൽ SEE ന് 60 മാർക്കും CIE ന് 40 മാർക്കും അനുവദിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്വയംഭരണാധികാരമുള്ളവ ഉണ്ട് എന്നാൽ മിക്ക സ്വയംഭരണ സ്ഥാപനത്തിൽ സാധാരണ കാണുന്നത് 5050 ഉം സ്വയംഭരണേതര അനുബന്ധ സ്ഥാപനങ്ങളിൽ 2080 ഉം ആണ് ഇവയാണ് ഏറ്റവും സാധാരണമായ സംഖ്യകൾ എങ്കിലും അവ സർവ്വകലാശാലകളിലും സ്ഥാപനങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു മാത്രമല്ല വിലയിരുത്തലിന് ഇപ്പോഴും രേഖാമൂലമുള്ള പ്രതികരണങ്ങൾ ആവശ്യമാണ് കണ്ടിന്യുവസ് ഇന്റെർണൽ ഇവാല്യുവേഷൻ അല്ലെങ്കിൽ കണ്ടിന്യുവസ് അസ്സസ്സ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിന്യുവസ് ഇന്റെർണൽ ഇവാല്യുവേഷൻ നടത്താൻ ഉപയോഗിക്കാൻ കഴിയുന്ന അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളുടെ എണ്ണവും അനുവദനീയമായ വൈവിധ്യമാർന്ന ഉപകരണങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അനുബന്ധ സർവകലാശാല നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതിലും ഒരുപാട് വ്യത്യാസമുണ്ടാകാം CIE യുടെ ഭാഗമായി നിങ്ങൾക്ക് രണ്ട് ടെസ്റ്റുകൾ മാത്രം നടത്താൻ കഴിയുന്ന സർവ്വകലാശാലകളുണ്ട് അവയുടെ ശരാശരി CIE മാർക്കായി കണക്കാക്കുന്നു 3 ടെസ്റ്റുകൾ നടത്തുകയും മികച്ച 2 എണ്ണം തിരഞ്ഞെടുക്കുകയും അവയുടെ ശരാശരി CIE ആയി കണക്കാക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് CIE യുടെ ചില മാർക്കുകളുമായി ബന്ധപ്പെട്ട് അധ്യാപകന് സ്വാതന്ത്ര്യമുള്ള സ്ഥാപനങ്ങളുണ്ട് കൂടാതെ അധ്യാപകർക്ക് കുറച്ച് മാർക്കുകൾക്ക് ക്വിസുകൾ അസൈൻമെന്റുകൾ മിനി പ്രോജക്ടുകൾ എന്നിവ നൽകാൻ കഴിയും കുറച്ച് മാർക്കിന് എഴുത്തു പരിശോധനയുടെ രൂപത്തിലായിരിക്കണം അതിനാൽ സാധ്യമായ അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളുടെ വ്യതിയാനവും ഈ ഉപകരണങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന ചോദ്യ തരങ്ങളും സ്ഥാപനങ്ങൾ തോറും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എല്ലാ സാഹചര്യങ്ങളിലും മൊത്തത്തിൽ എടുത്ത ഇന്റെർണൽ ഇവാല്യുവേഷൻ എല്ലാ സിഒകളെയും വേണ്ടവിധം അഭിസംബോധന ചെയ്യണം ഇത് പല സ്ഥാപനങ്ങൾക്കും ഒരു പ്രധാന വെല്ലുവിളിയാണ് പ്രത്യേകിച്ചും അവസാനം വരുന്ന സിഒകളെ വിലയിരുത്തുന്നത് വെല്ലുവിളിയായി മാറുന്നു ഉദാഹരണത്തിന് 8 CO കൾ ഉണ്ടെങ്കിൽ COs 7 ഉം 8 ഉം വിലയിരുത്തുന്നത് പൊതുവെ ഒരു വെല്ലുവിളിയാണ് കാരണം ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽ CO7 CO8 എന്നിവ കണ്ടെത്തുമ്പോഴേക്കും സാധാരണയായി അവസാന ടെസ്റ്റ് നടന്നു കഴിഞ്ഞിരിക്കും അതിനാൽ എല്ലാ സിഇഒകളെയും വേണ്ടവിധം അഭിസംബോധന ചെയ്യുന്ന തരത്തിൽ ഇന്റെർണൽ ഇവാല്യുവേഷൻ രൂപകൽപ്പന ചെയ്യുന്നതിൽ വെല്ലുവിളികളുണ്ട് ഇവയെല്ലാം ഉറപ്പുവരുത്തുന്നതിന് മുൻകൂട്ടി ആസൂത്രണം ആവശ്യമാണ് അതില്ലാതെ CO നേട്ടം കണക്കാക്കുന്നതിനുള്ള ഡാറ്റ നൽകുന്നതിൽ CIE അപര്യാപ്തമാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ യൂണിറ്റിൽ നമ്മൾ ഒരു ഗുണനിലവാരമുള്ള CIE ഉറപ്പുവരുത്തുന്നതിനും ഗുണനിലവാരമുള്ള SEE ഉറപ്പാക്കുന്നതിനും മുൻകൂട്ടി ആവശ്യമായ ആസൂത്രണം എന്തെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു CIE യുടെ ആദ്യ ഘട്ടം ഇതായിരിക്കും ലഭ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി ഉപയോഗിക്കേണ്ട അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളുടെ വിശദാംശങ്ങളും CIE ക്കായി ഈ ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള സമയക്രമവും ഇൻസ്ട്രക്ടർ അന്തിമമാക്കണം ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 ടെസ്റ്റുകൾ മാത്രമേ ഉണ്ടാകൂ അല്ലെങ്കിൽ 2 ടെസ്റ്റുകളും ചില ക്വിസുകളും ഉണ്ടാകാം അല്ലെങ്കിൽ ടെസ്റ്റുകൾ ക്വിസുകൾ അസൈൻമെന്റുകൾ ഒരു മിനി പ്രോജക്റ്റ് എന്നിവ ഉണ്ടാകാം അതിനാൽ ഈ സന്ദർഭങ്ങളിലെല്ലാം ഈ അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളുടെ വിശദാംശങ്ങളും അവയ്ക്കായി അനുവദിച്ച മാർക്കുകളും അത് നടത്തേണ്ടുന്ന സമയക്രമവും നമ്മൾ അന്തിമമാക്കണം ഒരു ഉദാഹരണമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ ഇൻസ്ട്രക്ടർ 2 ടെസ്റ്റുകൾ ആസൂത്രണം ചെയ്യുന്നു ഓരോനിന്നും 15 മാർക്ക് തുടർന്ന് 2 ക്വിസുകൾ ഓരോന്നും 5 മാർക്കിനും 2 അസൈൻമെന്റുകൾ 5 മാർക്കിന് വീതം അങ്ങനെ ആകെ 50 മാർക്ക് നിങ്ങൾക്ക് കാണാനാകുന്നത് പോലെ ടെസ്റ്റ് 1 ടെസ്റ്റ് 2 എന്നിവ 7 13 ആഴ്ചകളിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു 2 ക്വിസുകൾ 5 14 ആഴ്ചകളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് കൂടാതെ 1 2 അസൈൻമെന്റുകൾ ഒൻപതാം ആഴ്ചയിലും മറ്റൊന്ന് 15 ാം ആഴ്ചയിൽ സമർപ്പിക്കേണ്ടതാണ് ഇപ്പോൾ ഈ അസൈൻമെന്റുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുമ്പോൾ അസൈൻമെന്റിൽ പ്രവർത്തിക്കാനും അവ സമർപ്പിക്കാനും വിദ്യാർത്ഥിക്ക് എത്ര സമയം അനുവദിക്കണം എന്നതിനെ കുറിച്ച് ഇൻസ്ട്രക്ടർ തീരുമാനിക്കേണ്ടതുണ്ട് എന്നാൽ അസൈൻമെന്റ് വിഷയം വിദ്യാർത്ഥിയെ നന്നേ മുൻകൂട്ടി സൂചിപ്പിച്ചിട്ടുണ്ടെന്നും അത് സമർപ്പിക്കേണ്ട ആഴ്ച മുൻകൂട്ടി അറിയാമെന്നും അനുമാനിക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി തയ്യാറാക്കുക എന്നതാണ് ആദ്യപടി ഉപയോഗിക്കേണ്ട അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളും ഈ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഷെഡ്യൂളും എന്നിവയെ പറ്റി അസ്സസ്സ്മെന്റ് പദ്ധതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അവസാന മാർക്കുകളായിരിക്കുമെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഉദാഹരണത്തിന് അസൈൻമെന്റ് 1 അത് 5 മാർക്ക് പറയുന്നു എന്നാൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ യഥാർത്ഥ അസൈൻമെന്റ് 5 മാർക്കിന് ആയിരിക്കേണ്ടതില്ല എനിക്ക് 20 മാർക്ക് പറയാൻ കഴിയും എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ സംഭവിക്കുന്നത് വിദ്യാർത്ഥികളുടെ പ്രകടനം അവസാനം വരെ ഉചിതമായി സ്കെയിൽ ചെയ്യുന്നു എന്നതാണ് അതായത് 20 മാർക്കിന് അസൈൻമെന്റ് 1 നൽകുകയും അവസാന മാർക്ക് 4 കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ പ്രകടനം ഉചിതമായി സ്കെയിൽ ചെയ്യപ്പെടും ക്വിസുകളും അസൈൻമെന്റുകളും രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇത് ആവശ്യമായിത്തീരുന്നു കാരണം അവർക്ക് അനുവദിച്ച ആകെ മാർക്ക് ചെറുതും എന്നാൽ അത്രയും കുറഞ്ഞ മാർക്കിന് ഒരു അസ്സസ്സ്മെന്റ് ഉപകരണം രൂപകൽപ്പന ചെയ്യുന്നത് അത്ര സൌകര്യപ്രദവുമല്ല അതിനാൽ എനിക്ക് 20 മാർക്കിനായി ക്വിസ് രൂപകൽപ്പന ചെയ്യാം തുടർന്ന് അത് 5 മാർക്കിലേക് കുറക്കാം ഇൻസ്ട്രക്ടറുടെ ആവശ്യവും സൌകര്യവും അടിസ്ഥാനമാക്കി ഏത് അസ്സസ്സ്മെന്റ് ഉപകരണത്തിനും ഇത്തരത്തിലുള്ള സ്കെയിലിംഗ് നടത്താം അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളും അവയുടെ ഷെഡ്യൂളും തീരുമാനിച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ സിഒകളെ നോക്കണം ഓരോ സിഒയ്ക്കും നമ്മൾ തീരുമാനിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് സിഐഇയ്ക്കുള്ള ആകെ മാർക്കിൽ നിന്ന് സിഒക്ക് അനുവദിക്കുന്ന മാർക്ക് ഉദാഹരണത്തിന് CIE ക്ക് 50 മാർക്കുള്ളതിൽ നിന്നും CO1 CO2 CO3 തുടങ്ങിയവയ്ക്ക് എത്ര മാർക്ക് അനുവദിക്കും അതിനാൽ ഒരു പ്രത്യേക CO യ്ക്കായി അനുവദിക്കേണ്ട മാർക്കുകൾ നമ്മൾ തീരുമാനിക്കണം പ്രസക്തമായ അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളിലൂടെ ഈ മാർക്കുകളുടെ വിതരണം ചെയ്യപ്പെടുന്നു ഒരു പ്രത്യേക സിഒ ചിലപ്പോ 2 3 അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളിലൂടെ അഭിസംബോധന ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ടെസ്റ്റ് 1 ലും ക്വിസ് 1 ലും അസൈൻമെന്റ് 1 ലും CO1 അഭിസംബോധന ചെയ്യും ടെസ്റ്റ് 1 ൽ എത്ര മാർക്ക് അനുവദിക്കും Q 1 ൽ എത്ര മാർക്ക് ഉണ്ടാകും അസൈൻമെന്റ് 1 ൽ എത്ര ഉണ്ടാകും നമ്മൾ അത് തീരുമാനിക്കേണ്ടതുണ്ട് തുടർന്ന് ഈ സിഒയുമായി ബന്ധപ്പെട്ട അസ്സസ്സ്മെന്റ് ഇനങ്ങളുടെ വൈജ്ഞാനിക തലങ്ങൾ ഇത് നമ്മൾ വീണ്ടുംവിശദമായി ചർച്ചചെയ്യും പക്ഷേ ഈ സിഒയുമായി ബന്ധപ്പെട്ട അസ്സസ്സ്മെന്റ് ഇനങ്ങളുടെ വൈജ്ഞാനിക തലങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് അതിനാൽ ആദ്യത്തേത് മാർക്ക് അലോക്കേഷൻ ആണ് മൊത്തം സിഐഇ മാർക്കുകളിൽ ഒരു പ്രത്യേക സിഒക്ക് അനുവദിച്ച മാർക്ക് എത്ര വ്യക്തമായും ഇത് ഇൻസ്ട്രക്ടറുടെ തീരുമാനമാണ് ഓരോ സിഒയും വിലയിരുത്തപ്പെടണം എന്നതാണ് ഏക തടസ്സം അതിനർത്ഥം പൂജ്യമല്ലാത്ത മാർക്കുകൾ ഓരോ സിഒയ്ക്കും അനുവദിക്കണം അതിനപ്പുറം ഇത് ഇൻസ്ട്രക്ടർമാരുടെ തിരഞ്ഞെടുപ്പാണ് എന്നിരുന്നാലും അനുവദിക്കേണ്ട മാർക്ക് തീരുമാനിക്കുന്നതിൽ രണ്ട് പ്രധാന പാരാമീറ്ററുകൾ ഇൻസ്ട്രക്ടർ പരിഗണിക്കുകയാണെങ്കിൽ അത് അഭികാമ്യമാണ് അതിലൊന്നാണ് ആ സിഒക്കായി നീക്കിവച്ചിരിക്കുന്ന ക്ലാസ് റൂം സമയത്തിന്റെ അനുപാതം ഒരു പ്രത്യേക സിഒയ്ക്കായി നമ്മൾ ഗണ്യമായ സമയം ചെലവഴിക്കുന്നു പക്ഷേ ആ സിഒക്ക് അനുവദിച്ച മാർക്കിന്റെ എണ്ണം ഗണ്യമായി കുറവാണെങ്കിൽ അത് വളരെ അസ്വാഭാവികം ആയി തോന്നും അതിനാൽ സിഒയ്ക്കായി നീക്കിവച്ചിരിക്കുന്ന ക്ലാസ് റൂം സമയത്തിന്റെ അനുപാതം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാൽ ക്ലാസ് റൂമിന്റെ ഇത്രയും ശതമാനം സിഒയ്ക്കായി നീക്കിവച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഇത് കണക്ക് കൂട്ടേണ്ടതില്ല അതിനാൽ അതേ 50ശതമാനം ആ സിഒക്കായി നീക്കിവച്ചിരിക്കുന്നു എന്നല്ല പക്ഷേ ഒരു അദ്ധ്യാപകൻ കണക്കിലെടുക്കേണ്ട ഒരു പ്രധാന പാരാമീറ്ററാണ് ഇത് പിന്നീടുള്ള കോഴ്സുകളിൽ ആ സി യുടെ ആപേക്ഷിക പ്രാധാന്യത്തെക്കുറിച്ചുള്ള ആത്മനിഷ്ഠമായ ധാരണയും അതും കണക്കിലെടുക്കാം ഈ പാരാമീറ്ററുകളെ അടിസ്ഥാനമാക്കി ഒരു നിർദ്ദിഷ്ട സിഒക്ക് എത്ര മാർക്ക് അനുവദിക്കണം എന്ന് ഇൻസ്ട്രക്ടർ തീരുമാനിക്കേണ്ടതുണ്ട് അതിനാൽ ആ സ്വാതന്ത്ര്യം ഇപ്പോഴും ഇൻസ്ട്രക്ടറുടെ പക്കലുണ്ട് എന്നാൽ ആ സംഖ്യ തീരുമാനിക്കുന്നതിൽ കണക്കിലെടുക്കാവുന്ന പാരാമീറ്ററുകളാണ് ഇവ ഒരു ഉദാഹരണമായി ഒരു കോഴ്സിൽ നമുക്ക് ഒരു CO നോക്കാം CO5 ക്ലാസ് റൂം സെഷനുകളുടെ എണ്ണം 56 ഉം CO5 ന് വേണ്ടി നീക്കിവച്ചിരിക്കുന്ന ക്ലാസ് റൂം സെഷനുകളുടെ എണ്ണം 8 ഉം അതായത് 14 ശതമാനം മൊത്തം CIE മാർക്ക് 50 ന് തുല്യവുമാണെന്ന് കരുതുക അതിനാൽ നിങ്ങൾ അതേ ശതമാനത്തിൽ കർശനമായി പോയാൽ 7 മാർക്ക് ലഭിക്കും CO5 ന് മാത്രം 7 മാർക്ക് അനുവദിക്കുന്നത് സാധ്യമാണ് പക്ഷേ പിന്നീടുള്ള കോഴ്സുകൾക്ക് ഈ CO5 കൂടുതൽ പ്രാധാന്യമുള്ളത് ആണെന്ന് ഇൻസ്ട്രക്ടർ മനസ്സിലാക്കുന്നു അതിനാൽ ഇൻസ്ട്രക്ടർ CO5 ന് യഥാർത്ഥത്തിൽ 10 മാർക്ക് അനുവദിച്ചു അത് തികച്ചും ശരിയാണ് അതിനാൽ ഒരു പ്രത്യേക സിഒക്ക് ഇൻസ്ട്രക്ടർ അനുവദിച്ച മാർക്ക് ഈ രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ഒടുവിൽ ഇത് ഇൻസ്ട്രക്ടറുടെ ഡിസൈൻ ചോയിസാണ് അതിനാൽ CO5 ന് അനുവദിച്ച മാർക്ക് 10 ആണ് അതേ രീതിയിൽ ഇൻസ്ട്രക്ടർ ഓരോ സിഒയ്ക്കും അനുവദിക്കേണ്ട മാർക്ക് തീരുമാനിക്കേണ്ടതുണ്ട് തീർച്ചയായും സിഐഇയ്ക്കായി നിശ്ചയിച്ചിട്ടുള്ള ആകെ മാർക്ക് വരെ വരണംഇത് ഈ സാഹചര്യത്തിൽ CIE ക്കായുള്ള ആകെ മാർക്ക് 50 ആണ് അതിനാൽ മാർക്ക് അലോക്കേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ നമുക്ക് ഊഹിക്കാം CO5 ഒഴികെയുള്ള എല്ലാ CO കളും 8 മാർക്ക് വീതം CO5 ന് 10 ആണ് അതിനാൽ നമുക്ക് 8x5 40 അധികം 10 മൊത്തം 50 മാർക്ക് ഈ തിരഞ്ഞെടുപ്പ് ഇൻസ്ട്രക്ടറുടെ തിരഞ്ഞെടുപ്പാണ് CO1 CO2 CO3 CO4 CO6 എന്നിവയെല്ലാം ഒരേ വെയിറ്റേജ് 8 ആയിരിക്കണമെന്ന് ആവശ്യമില്ല ഈ സാഹചര്യത്തിൽ ഇൻസ്ട്രക്ടർ അങ്ങനെ തീരുമാനിച്ചു പക്ഷേ നമ്മൾ ചർച്ച ചെയ്ത ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഇത് CO കൾ തമ്മിൽ വ്യത്യാസപ്പെടാം അതിനാൽ സിഒകൾക്ക് ഇത്തരത്തിലുള്ള സിഐഇ മാർക്ക് അനുവദിക്കുന്നത് സംബന്ധിച്ച് ഇൻസ്ട്രക്ടർ തീരുമാനിക്കേണ്ടതുണ്ട് ഓരോ സിഒയ്ക്കും നമ്മൾ ഇതിനകം മാർക്ക് നിർണ്ണയിച്ചിട്ടുണ്ട് പ്രസക്തമായ അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളിൽ ഈ മാർക്ക് വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഇൻസ്ട്രക്ടർ തീരുമാനിക്കണം വീണ്ടും ഇത് ഇൻസ്ട്രക്ടറുടെ തിരഞ്ഞെടുപ്പാണ് അടിസ്ഥാനപരമായി ഞങ്ങൾ പറയുന്നത് ഒരു പ്രത്യേക സിഒയെ ഏത് ഉപകരണങ്ങളിലൂടെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് ഒരു സിഒയെ ഒരു അസ്സസ്സ്മെന്റ് ഉപകരണം അഭിസംബോധന ചെയ്യണമെങ്കിൽ ആ സിഒയുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷനുകൾ ആ പ്രത്യേക അസ്സസ്സ്മെന്റ് ഉപകരണത്തിന്റെ ഷെഡ്യൂൾ സമയത്തിന് മുമ്പായി ഇതിനകം തന്നെ കണ്ടെത്തിയിരിക്കണം ക്ലാസിൽ ചർച്ച ചെയ്ത് പൂർത്തിയാക്കിയിരിക്കണം ഒരു ഉദാഹരണമായി ടി 1 ആഴ്ച 7 ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ 12 13 ആഴ്ചകളിലാണ് CO6 ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ലെസ്സൺ പ്ലാൻ സൂചിപ്പിക്കുന്നു CO6 നെ T1 അഭിസംബോധന ചെയ്യാൻ കഴിയില്ല എന്ന് വ്യക്തമാണ് വാസ്തവത്തിൽ മുമ്പത്തെ ഇന്റെർണൽ ഇവാല്യുവേഷന്റെ പദ്ധതിയിൽ ഇത് ഒരു പ്രധാന വൈകല്യമായിരുന്നു അവിടെ 2 ടെസ്റ്റുകൾ മാത്രമേ ഉള്ളൂ കൂടാതെ ടെസ്റ്റ് 2 പൂർത്തിയാകുമ്പോഴേക്കും മിക്ക കേസുകളിലും ഇൻസ്ട്രക്ടർമാർ ആദ്യത്തെ 4 അല്ലെങ്കിൽ 5 സിഒകളുമായി ബന്ധപ്പെട്ട നിർദ്ദേശ സാമഗ്രികൾ മാത്രമേ പൂർത്തീകരിച്ചിട്ടുണ്ടാവുള്ളൂ അതിനാൽ ശേഷിക്കുന്ന സിഒകൾ ഇപ്പോഴും ലെസ്സൺ പ്ലാൻ പ്രകാരം അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇതിനകം അവസാനത്തെ വിലയിരുത്തൽ ഉപകരണം അവസാനിച്ചു അതിനാൽ പിന്നീടുള്ള ചില സിഒകളെക്കുറിച്ച് നമുക്ക് പ്രകടന ഡാറ്റയില്ല ഇത്തരത്തിലുള്ള വിലയിരുത്തൽ പദ്ധതിയിലെ ഒരു പ്രധാന പോരായ്മയാണിത് അതിനാൽ നിരവധി സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത് വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു പിന്നീടുള്ള സിഒകളെ അഭിസംബോധന ചെയ്യുന്നതിനായി അവർ ടെസ്റ്റുകൾ കൂടാതെ മറ്റ് അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ കൊണ്ടുവന്നു അവസാനമുള്ള സിഒകളെ അഭിസംബോധന ചെയ്യുന്നതിന് ഇത് സെമസ്റ്ററിന്റെ അവസാനം നൽകാം അല്ലാത്തപക്ഷം പിന്നീടുള്ള സിഒകളെ അഭിസംബോധന ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ക്വിസ് അല്ലെങ്കിൽ അസൈൻമെന്റ് പോലുള്ള മറ്റ് അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ പിന്നീടുള്ള സിഒകളെ അഭിസംബോധന ചെയ്യുന്നതിന് തികച്ചും അനിവാര്യമാകും അതിനാൽ ഈ പരിമിതി കണക്കിലെടുത്ത് ഒരു പ്രത്യേക സിഒയെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ ഇൻസ്ട്രക്ടർ തീരുമാനിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് സാധുതയുള്ള ഒരു പദ്ധതിയുടെ ഉദാഹരണമാണ് സാധുതയുള്ള എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അസ്സസ്സ്മെന്റ് ഉപകരണം ഷെഡ്യൂൾ ചെയ്ത സമയം ആകുമ്പോൾ ആ സിഒയുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷനുകൾ ക്ലാസ് മുറിയിൽ പൂർത്തിയായിരിക്കും അതിനാൽ CO1 ന് ഇതിനകം അനുവദിച്ച ആകെ മാർക്ക് 8 ആണ് ക്വിസ് 1 3 മാർക്കിലും ടി 1 5 മാർക്കിലുംഇതിനുള്ള മാർക്കിന്റെ വിഹിതം അനുവദിച്ചിരിക്കുന്നു ആകെ അങ്ങനെ 8 മാർക്ക് ക്വിസ് 1 നടത്തുമ്പോഴോ ടി 1 നടത്തുമ്പോഴോ CO1 മായി ബന്ധപ്പെട്ട മെറ്റീരിയൽ ക്ലാസ് മുറിയിൽ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കും അതിനാൽ CO1 മായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുള്ള ക്വിസ് 1 ടി 1 എന്നിവ എടുക്കാൻ വിദ്യാർത്ഥി തയ്യാറാണ് അതുപോലെ തന്നെ ഓരോ സിഒയ്ക്കും ആ സിഒയെ അഭിസംബോധന ചെയ്യേണ്ട അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ ഏതെന്ന് നമ്മൾ തീരുമാനിക്കണം അതിനാൽ ഓരോ CO യിലും നമ്മൾ അത് ചെയ്തുവെന്ന് കരുതുക ഉദാഹരണത്തിന് കോഴ്സിന്റെ അവസാനത്തെ CO ആയ CO6 ഇത് ഒരു ടെസ്റ്റും ഉൾക്കൊള്ളുന്നില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം നമ്മൾ ടെസ്റ്റ് 2 പൂർത്തിയാകുമ്പോഴേക്കും CO6 മായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളെ നമ്മൾ ശരിക്കും സ്പർശിച്ചിട്ടുണ്ടാവില്ല CO6 ഉമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയലുകൾ വളരെ പിന്നീട് മാത്രമേ വരൂ അതിനാൽ ഈ CO6 നെ ടെസ്റ്റ് 1 അല്ലെങ്കിൽ ടെസ്റ്റ് 2 അഭിസംബോധന ചെയ്യുന്നില്ല ഒരു പരിധിവരെക്വിസ് 2 3 മാർക്കിന് ഇതിനെ അഭിസംബോധന ചെയ്യുന്നു എന്നാൽ ശേഷിക്കുന്ന മാർക്ക് അവയെല്ലാം അസൈൻമെന്റ് 2 ൽ അഭിസംബോധന ചെയ്യപ്പെടുന്നു കൂടാതെ അസൈൻമെന്റ് 2 സമർപ്പിക്കുന്നതിനുള്ള ഷെഡ്യൂൾ ചെയ്ത തീയതി വളരെ വൈകിയാണ് നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം അതിനാൽ അപ്പോഴേക്കും CO6 മായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയലുകൾ ശരിയായി പൂർത്തിയാക്കപ്പെടും കൂടാതെ ഒരു വിദ്യാർത്ഥിക്ക് അസൈൻമെന്റ് പൂർത്തിയാക്കി സമർപ്പിക്കാൻ മതിയായ സമയവും ലഭിക്കും അതിനാൽ സെമസ്റ്ററിൽ വ്യാപിച്ചുകിടക്കുന്ന ഒന്നോ അതിലധികമോ അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളിലൂടെ ഓരോ സിഒയും യുക്തിസഹമായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി അനിവാര്യമാണ് ഒരു സിഒക്ക് അനുവദിക്കേണ്ട മാർക്ക് നിർണ്ണയിച്ചതിനുശേഷം ആ സിഒ അഭിസംബോധന ചെയ്യേണ്ട അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ നിർണ്ണയിച്ചതിനുശേഷം തീരുമാനിക്കേണ്ട അടുത്ത പ്രധാന പ്രശ്നം പ്രസക്തമായ വൈജ്ഞാനികതലങ്ങളിൽ മാർക്കിന്റെ വിതരണമാണ് ഇപ്പോൾ പൊതുവേ ഒരു അസ്സസ്സ്മെന്റ് ഇനത്തിന്റെ വൈജ്ഞാനിക നില CO യുടെ അതേ തലത്തിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു CO അനലൈസ് തലത്തിലാണെങ്കിൽ അസ്സസ്സ്മെന്റ് ഇനവും അനലൈസ് തലത്തിലാണെന്ന് പ്രതീക്ഷിക്കുന്നു സിഒ അപ്ലൈ തലത്തിലാണെങ്കിൽ അസ്സസ്സ്മെന്റ് ഇനവും അപ്ലൈ തലത്തിൽ ആയിരിക്കണം എന്നിരുന്നാലും പ്രായോഗികമായി മിക്ക ഇൻസ്ട്രക്ടർമാരും വിവിധ കാരണങ്ങളാൽ അസ്സസ്സ്മെന്റ് ഇനം കുറഞ്ഞ വൈജ്ഞാനിക തലങ്ങളിൽ സജ്ജമാക്കുന്നു ഒരു താഴ്ന്ന നില പോലും വിലയിരുത്തേണ്ടത് പ്രധാനമായിരിക്കാം ആദ്യം ആ തലത്തിൽ പരീക്ഷിക്കാനും വിദ്യാർത്ഥികളുടെ പുരോഗതി കാണാനും അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം അതിനാൽ കുറഞ്ഞ വൈജ്ഞാനിക തലങ്ങളിൽ നിന്നുള്ള അസ്സസ്സ്മെന്റ് ഇനങ്ങൾ ഉണ്ടാകാൻ വിവിധ കാരണങ്ങളുണ്ടാകാം അതിനാൽ ഒരു പ്രത്യേക സിഒ അപ്ലൈ തലത്തിലാണെങ്കിലും ആ സിഒയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ എനിക്ക് താഴത്തെ തലങ്ങളായ അണ്ടർസ്റ്റാൻഡ് റിമമ്പർ എന്നിവയിൽ ഉണ്ടാകാം അതിനർത്ഥം ആ സിഒയുമായി ബന്ധപ്പെട്ട എനിക്ക് ചില ചോദ്യങ്ങൾ റിമമ്പർ തലത്തിൽ ചില ചോദ്യങ്ങൾ അപ്ലൈ തലത്തിൽ ചില ചോദ്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് തലത്തിൽ ഉണ്ടാകാം അതിനാൽ താഴ്ന്ന വൈജ്ഞാനിക തലങ്ങളിലുള്ള അസ്സസ്സ്മെന്റ് ഇനങ്ങൾക്ക് നൽകുന്ന വെയിറ്റേജുകൾ ഇൻസ്ട്രക്ടർ തീരുമാനിക്കുന്നു ഒരു സിഒ അപ്ലൈ തലത്തിലാണെങ്കിൽ അപ്ലൈ തലത്തിന് ഞാൻ എത്ര മാർക്ക് അനുവദിക്കും അണ്ടർസ്റ്റാൻഡ് റിമമ്പർ എന്ന താഴ്ന്ന നിലകളിലേക്ക് ഞാൻ എത്ര മാർക്ക് അനുവദിക്കും തീർച്ചയായും അതിനുള്ളിൽ തന്നെ അണ്ടർസ്റ്റാൻഡ് തലത്തിന് എത്ര മാർക്ക് റിമമ്പർ തലത്തിന് എത്ര മാർക്ക് എന്നതും ഇൻസ്ട്രക്ടറുടെ തിരഞ്ഞെടുപ്പ് ആണ് എന്നാൽ ഉപയോഗപ്രദമായ ഒരു നിയമം എന്തെന്നാൽ താഴ്ന്ന വിജ്ഞാന നിലവാരത്തിലുള്ള അസ്സസ്സ്മെന്റ് ഇനങ്ങൾക്ക് നൽകുന്ന വെയിറ്റേജ് 40 ശതമാനത്തിൽ കൂടരുത് എന്നതാണ് തീർച്ചയായും ഈ 40 ഒരു മാന്ത്രിക സംഖ്യ അല്ല നിങ്ങൾക്ക് 35 ശതമാനം തീരുമാനിക്കാം നിങ്ങൾക്ക് 30 ശതമാനം തീരുമാനിക്കാം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇൻസ്ട്രക്ടർക്ക് ഉണ്ട് എന്നാൽ ഇത് 50 ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ അസ്സസ്സ്മെന്റ് ദുർബലമാണെന്ന് തോന്നും ഒരു സിഒ അപ്ലൈ തലത്തിലാണെങ്കിൽ നമ്മുടെ അസ്സസ്സ്മെന്റ് ഇനങ്ങൾ അപ്ലൈ തലത്തെ അഭിസംബോധന ചെയ്യാതെ പ്രധാനമായും താഴ്ന്ന നിലകളെ മാത്രമേ അഭിസംബോധന ചെയ്യുന്നുള്ളൂവെങ്കിൽ സാധാരണയായി വിലയിരുത്തൽ നിലവാരമില്ലാത്തതായി കണക്കാക്കപ്പെടുന്നു തീർച്ചയായും ഇത് സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി സാധാരണയായി പല സ്ഥാപനങ്ങളും പിന്തുടരുന്ന ഒരു പരിശീലനമാണ് അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഗുണനിലവാര ഉറപ്പ് പ്രക്രിയയിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തുക എന്നത് അവിടെ ഈ തരത്തിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുമായി അസ്സസ്സ്മെന്റ് ഉപകരണം സാധൂകരിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്നു അതിനാൽ താഴ്ന്ന വൈജ്ഞാനിക തലങ്ങളിലുള്ള അസ്സസ്സ്മെന്റ് ഇനങ്ങൾക്ക് നൽകാവുന്ന പരമാവധി വെയിറ്റേജ് എന്തായിരിക്കാം എന്നതുപോലുള്ള ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് 40 ശതമാനം ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു ന്യായമായ സംഖ്യയാണ് എന്നാൽ ഈ നമ്പർ മാറ്റാൻ ഇൻസ്ട്രക്ടർക്ക് സ്വാതന്ത്ര്യമുണ്ട് കുറഞ്ഞ വൈജ്ഞാനിക നിലവാരത്തിലേക്ക് അനുവദിച്ച മാർക്കിന്റെ ശതമാനം എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി ചിന്തിക്കുക വാസ്തവത്തിൽ ഒബിഇ ചട്ടക്കൂടിന് മുമ്പുള്ള കാലഘട്ടത്തിലെ സെമസ്റ്റർ അവസാന ചോദ്യപേപ്പറുകളിലേക്ക് നിങ്ങൾ വീണ്ടും നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കഴിവുകൾ ഉയർന്ന വൈജ്ഞാനിക തലത്തിലാണെങ്കിലും ചോദ്യപേപ്പറുകളിൽ വളരെ കുറഞ്ഞ വൈജ്ഞാനിക തലങ്ങളായ റിമമ്പർ അണ്ടർസ്റ്റാൻഡ് നിലവാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളു എന്ന പരാതി ഉണ്ടായിരുന്നു അതിനാൽ ചോദ്യപേപ്പർ ന്യായമായ ഗുണനിലവാരമുള്ളതാണെന്ന് ഉറപ്പാക്കാൻ ഇൻസ്ട്രക്ടർക്ക് മുൻകൂട്ടി ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് ആസൂത്രണം ചെയ്യുന്ന അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ പ്രസക്തമായ വൈജ്ഞാനിക തലങ്ങളിൽ സിഒകളെ മതിയായ രീതിയിൽ അഭിസംബോധന ചെയ്യുന്നു അതിനാൽ ഇത് ഇൻസ്ട്രക്ടർ ചെയ്യേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് വീണ്ടും ഒരു ഉദാഹരണം എടുക്കാം നമ്മൾ CO5 കണ്ടു CO5 നായി ആകെ 10 മാർക്ക് ആസൂത്രണം ചെയ്തിട്ടുണ്ട് CO5 അപ്ലൈ തലത്തിലാണെന്ന് കരുതുക അപ്ലൈ തലത്തിന് ഞാൻ എത്ര മാർക്ക് അനുവദിക്കും റിമമ്പർ അണ്ടർസ്റ്റാൻഡ് എന്ന താഴ്ന്ന തലങ്ങൾക്ക് എത്ര മാർക്ക് ഞാൻ അനുവദിക്കും അതിനാൽ ഇത് ഒരു തിരഞ്ഞെടുപ്പാണ് അപ്ലൈ തലത്തിൽ അസ്സസ്സ്മെന്റ് ഇനങ്ങൾക്ക് 6 മാർക്കും താഴ്ന്ന തലങ്ങളിൽ അസ്സസ്സ്മെന്റ് ഇനങ്ങൾക്ക് 4 മാർക്കും നൽകാൻ ഇൻസ്ട്രക്ടർ തീരുമാനിച്ചു ഈ 4 മാർക്കുകൾ വീണ്ടും അണ്ടർസ്റ്റാൻഡ് തലത്തിൽ 2 മാർക്കായും റിമമ്പർ തലത്തിൽ 2 മാർക്കായും വിഭജിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് വളരെയധികം വിശദാംശങ്ങളാണെന്ന് തോന്നിയേക്കാം പക്ഷേ അസ്സസ്സ്മെന്റ് നല്ല നിലവാരമുള്ളതാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആസൂത്രണം അനിവാര്യമാണ് കൂടാതെ നല്ല നിലവാരമുള്ള അസ്സസ്സ്മെന്റാണ് നല്ല നിലവാരമുള്ള പഠനത്തിന്റെ താക്കോൽ എന്ന് നമ്മൾ ഇതിനകം കണ്ടു അസ്സസ്സ്മെന്റ് പഠനത്തെ നയിക്കുന്നു അതിനാൽ അസ്സസ്സ്മെന്റ് മുൻകൂട്ടി ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്തിട്ടില്ലെങ്കിൽ വിലയിരുത്തൽ മികച്ച നിലവാരത്തിലാകുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല അതിനാൽ ഇത് ഒരുപാട് വിശദാംശങ്ങൾ പോലെ കാണപ്പെടുന്നുണ്ടെങ്കിലും എല്ലാ അസ്സസ്സ്മെന്റ് ഇനങ്ങളും പ്രസക്തമായ വൈജ്ഞാനിക തലങ്ങളിൽ എല്ലാ സിഒകളെയും അഭിസംബോധന ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ് അതിനാൽ നല്ല നിലവാരമുള്ള അസ്സസ്സ്മെന്റ് ഉറപ്പാക്കാൻ ഇത്തരത്തിലുള്ള ഒരു ആസൂത്രണം മിക്കവാറും ആവശ്യമാണ് അടുത്ത പ്രധാന പ്രശ്നം വ്യത്യസ്ത വൈജ്ഞാനിക തലങ്ങളിലേക്ക് മാർക്ക് വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചുകഴിഞ്ഞാൽ ഒരു നിശ്ചിത CO യ്ക്കായി ഇതിനകം ആസൂത്രണം ചെയ്തിട്ടുള്ള അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾക്ക് ഈ മാർക്ക് എങ്ങനെയാണ് അനുവദിക്കുന്നതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് ആ സിഒയെ അഭിസംബോധന ചെയ്യേണ്ട എല്ലാ അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളും എന്താണെന്ന് നമ്മൾ ഇതിനകം തീരുമാനിച്ചു ഇപ്പോൾ ആ സിഒക്ക് ഏതൊക്കെ വൈജ്ഞാനിക തലങ്ങളിൽ എത്ര മാർക്ക് വീതം അനുവദിക്കണമെന്നും ഇതിനകം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളിൽ ഈ മാർക്കുകൾ എങ്ങനെ വിതരണം ചെയ്യാമെന്നതാണ് ഇപ്പോഴത്തെ അന്തിമ തീരുമാനം ഉദാഹരണത്തിന് CO5 നായുള്ള അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾക്കുള്ള മാർക്ക് വിതരണം ടെസ്റ്റ് 2 8 മാർക്കും ക്വിസ് 2 2 മാർക്കും ആണെന്ന് കരുതുക നമ്മൾ മുമ്പ് കണ്ട അതേ ഉദാഹരണമാണിതെന്ന് ശ്രദ്ധിക്കുക നമ്മൾ തുടരുകയാണ് ഇപ്പോൾ ഈ രണ്ട് ഉപകരണങ്ങളിലുടനീളം ചെയ്യേണ്ട മാർക്ക് വിതരണം നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് അപ്ലൈ തലത്തിൽ 6 മാർക്ക് ആവശ്യമാണെന്ന് നമ്മൾ ഇതിനകം തീരുമാനിച്ചു ഈ 6 മാർക്ക് ടി 2 ന്റെതാണെന്നും അണ്ടർസ്റ്റാൻഡ് തലത്തിൽ നമുക്ക് 2 മാർക്ക് വേണമെന്നും ഈ 2 മാർക്ക് ടി 2 ന്റെതാണെന്നും റിമമ്പർ ലെവലിൽ നമുക്ക് വേണ്ട 2 മാർക്കുകൾ ക്വിസ് 2 ൽ ഉൾപ്പെടുത്താമെന്നും നാം കണ്ടു അതിനാൽ CO5 മായി ബന്ധപ്പെട്ട മാർക്കുകൾ വിജ്ഞാന തലങ്ങളിൽ പ്രസക്തമായ അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളിലുടനീളം വിതരണം ചെയ്യുന്നത് ഇങ്ങനെയാണ് ടെസ്റ്റ് 2 ൽ CO5 മായി ബന്ധപ്പെട്ട അപ്ലൈ തലത്തിൽ 6 മാർക്കിനുള്ള അസ്സസ്സ്മെന്റ് ഇനങ്ങൾ ഉണ്ടാകും CO5 മായി ബന്ധപ്പെട്ട 2 മാർക്കുകൾക്ക് അണ്ടർസ്റ്റാൻഡ് ലെവലിൽ ഒരു അസ്സസ്സ്മെന്റ് ഇനം ഉണ്ടാകും കൂടാതെ ക്വിസ് 2 ൽ CO5 മായി ബന്ധപ്പെട്ട 2 മാർക്കുകൾക്കായി 1 അല്ലെങ്കിൽ 2 ഇനങ്ങൾ റിമമ്പർ ലെവലിൽ ഉണ്ടാകും അതിനാൽ ഒരു പ്രത്യേക സിഒയ്ക്കുള്ള പ്ലാൻ പ്രക്രിയ പൂർത്തിയാക്കുന്നു ഇത് എല്ലാ സിഒകൾക്കും വേണ്ടി നമ്മൾ ചെയ്യണം എല്ലാ സിഒകൾക്കും ആ സിഒക്ക് അനുവദിച്ച ആകെ മാർക്ക് ആ സിഒ അഭിസംബോധന ചെയ്യാൻ പോകുന്ന അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ അസ്സസ്സ്മെന്റ് വിതരണം ചെയ്യേണ്ട കോഗ്നിറ്റീവ് ലെവലുകൾ എന്നിവ നമ്മൾ തീരുമാനിക്കണം അതിനാൽ അത് ചുവടെ കാണിച്ചിരിക്കുന്നതുപോലെ CIE പദ്ധതിയുടെ ഒരു സംഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കുന്നു CIE ഉപകരണങ്ങൾ ഓരോ ഉപകരണത്തിനും നേരെയുള്ള മാർക്കുകൾ ഈ ഉപകരണങ്ങളുടെ ഷെഡ്യൂൾ എന്നിവ നിർണ്ണയിക്കുക അതാണ് ആദ്യ പടി ഓരോ CO ക്കും CIE യിലെ മാർക്ക് അനുവദിക്കുക തിരഞ്ഞെടുത്ത CIE ഉപകരണങ്ങളിൽ ഈ മാർക്കുകൾ വിതരണം ചെയ്യുക പ്രസക്തമായ കോഗ്നിറ്റീവ് ലെവലുകൾക്കുള്ള മാർക്ക് നിർണ്ണയിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു പട്ടിക ലഭിച്ചേക്കാം CO1 ന്റെ യഥാർത്ഥ വൈജ്ഞാനിക നില "അണ്ടർസ്റ്റാൻഡ്" ആണ് അത് ടെസ്റ്റ് 1 ക്വിസ് 1 എന്നിവയിൽ ഉൾക്കൊള്ളുന്നു ടെസ്റ്റ് 1 ൽ 5 മാർക്ക് അനുവദിക്കുകയും ക്വിസ് 1 ൽ 3 മാർക്ക് അനുവദിക്കുകയും ചെയ്യുന്നു അതിനാൽ അടിസ്ഥാനപരമായി CO1 രണ്ട് ഉപകരണങ്ങളായ T1 Q1 എന്നിവയിൽ ഉൾക്കൊള്ളുന്നു അതിൽ അണ്ടർസ്റ്റാൻഡ് തലത്തിൽ T1 ൽ 3 മാർക്ക് ഉണ്ടാകും അത് ഇവിടെ കാണിച്ചിട്ടില്ല എന്നാൽ അതിനർത്ഥം ബാക്കി 2 മാർക്ക് റിമമ്പർ തലത്തിലേക്ക് പോകുന്നു എന്നാണ് അതിനാൽ ടി 1 ലും നമ്മൾ ഒരു ലെവലിൽ കുറച്ച് മാർക്കും താഴത്തെ നിലയിൽ അവശേഷിക്കുന്ന മാർക്കും ചെയ്തു അതുപോലെ CO2 ഇത് ടി 1 ക്വിസ് 1 അസൈൻമെന്റ് 1 എന്നിവയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം അതിനാൽ ഇത് 3 മൂല്യനിർണ്ണയ ഉപകരണങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു അപ്ലൈ തലത്തിലുള്ള CO3 ടി 1 ലും അസൈൻമെന്റ് 1 എ 1 ലും അഭിസംബോധന ചെയ്യപ്പെടുന്നു അതുപോലെ CO4 നെ T2 ലും അസൈൻമെന്റ് 1 ലും തുടർന്ന് CO5 T2 ലെ ക്വിസ് 2 ലും അഭിസംബോധന ചെയ്യുന്നു CO6 നെ ടി 1 അല്ലെങ്കിൽ ടി 2 പോലെയുള്ള ഒരു ടെസ്റ്റിലൂടെയും അഭിസംബോധന ചെയ്യപ്പെടുന്നില്ല അത് പിന്നീട് വരുന്ന ക്വിസ് 2 ലും അസൈൻമെന്റ് 2 ലും മാത്രം അഭിസംബോധന ചെയ്യുന്നു അതിനാൽ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് അനുവദിച്ച സിഒയുടെ മാർക്ക് വ്യത്യസ്ത വൈജ്ഞാനിക തലങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു എന്നതാണ് അവ CIE ക്കായുള്ള വ്യത്യസ്ത മൂല്യനിർണ്ണയ ഉപകരണങ്ങളിൽ ഒരേ കോഗ്നിറ്റീവ് ലെവലിലും താഴ്ന്ന കോഗ്നിറ്റീവ് ലെവലിലുമായി ആയി വ്യാപിച്ചിരിക്കുന്നു അങ്ങനെ അത് CIE പ്രക്രിയയുടെ പദ്ധതി പൂർത്തിയാക്കുന്നു തീർച്ചയായും ടി 1 ടി 2 ക്വിസ് 1 ക്വിസ് 2 അസൈൻമെന്റ് 1 അസൈൻമെന്റ് 2 എന്നിവയ്ക്കുള്ള ആകെ മാർക്കുകളുടെ എണ്ണം നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അവ യഥാർത്ഥ പ്ലാൻ അനുസരിച്ചാണ് അതിനാൽ ഓരോ അസ്സസ്സ്മെന്റ് ഉപകരണത്തിനും അനുവദിച്ച ആകെ മാർക്ക് യഥാർത്ഥ പ്ലാനും ഷെഡ്യൂൾ ചെയ്ത ടെസ്റ്റ് അസൈൻമെന്റുകളും ക്വിസുകളും അനുസരിച്ചാണ് അവയെല്ലാം ക്ലാസ് റൂമുകളിൽ അഭിസംബോധന ചെയ്ത സി കൾ പൂർത്തിയാക്കിയ സമയത്തും വൈജ്ഞാനിക തലങ്ങളെല്ലാം ഉചിതമായി ആസൂത്രണം ചെയ്യപ്പെടുന്ന സമയത്തും സംഭവിക്കുന്നു സിഒയുടെ കോഗ്നിറ്റീവ് ലെവലിന് തുല്യമായ കോഗ്നിറ്റീവ് ലെവലിൽ എത്ര മാർക്ക് താഴ്ന്ന ലെവലിൽ എത്ര മാർക്ക് ഈ ആസൂത്രണങ്ങളെല്ലാം പൂർത്തിയായി അത് ഞങ്ങൾ ഇവിടെ കാണിച്ച ഒരു അന്തിമ പട്ടികയിലേക്ക് നയിക്കുന്നു ഇത് അല്പം വിശദമായി കാണപ്പെടുന്നുണ്ടെങ്കിലും ഇത് CIE പ്ലാൻ ആയിരിക്കും CIE ആദ്യം എല്ലാ CO കളെയും അഭിസംബോധന ചെയ്യുന്നുവെന്നും തുടർന്ന് CO കൾ ഉചിതമായ വൈജ്ഞാനിക തലങ്ങളിൽ അഭിസംബോധന ചെയ്യപ്പെടുന്നുവെന്നും വിലയിരുത്തൽ നടക്കുന്ന സമയം ന്യായയുക്തമാണെന്നും ഇത് ഉറപ്പാക്കുന്നു അതിനാൽ ഇത് നമുക്ക് ഉണ്ടായിരിക്കേണ്ട CIE പദ്ധതിയാണ് തുടർന്ന് നമുക്ക് SEE സെമസ്റ്റർ അവസാന പരീക്ഷയിലേക്ക് പോകാം അതിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു സെമസ്റ്റർ അവസാന പരീക്ഷ മാത്രമേയുള്ളൂ അതിനാൽ ഒരു വിലയിരുത്തൽ ഉപകരണം മാത്രമേ ആസൂത്രണം ചെയ്യാനാവൂ അതിനാൽ ഒന്നിലധികം മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ പോലെ സാധ്യമല്ല ഒരെണ്ണം മാത്രമേയുള്ളൂ SEE ഉപകരണത്തിന്റെ ഘടന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തമ്മിൽ യൂണിവേഴ്സിറ്റികൾ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വ്യക്തമായും ഘടന എന്തായാലും അത് മുഴുവൻ സിഒകളെയും അഭിസംബോധന ചെയ്യണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാൽ SEE ക്കായുള്ള പദ്ധതിയിൽ ഇനിപ്പറയുന്ന ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു ഓരോ CO ക്കും SEE ക്കായി മാർക്ക് അനുവദിക്കുക തുടർന്ന് പ്രസക്തമായ കോഗ്നിറ്റീവ് ലെവലുകൾക്കായി മാർക്ക് നിർണ്ണയിക്കുക ഈ രണ്ട് ഘട്ടങ്ങൾ മാത്രം ആവശ്യമാണ് ഈ രണ്ട് ഘട്ടങ്ങളുടെ യുക്തി CIE യ്ക്ക് ഉപയോഗിച്ചതിന് തുല്യമാണ് അതായത് ആ സിഒക്ക് ചെലവഴിച്ച ക്ലാസ് റൂം അനുപാതത്തെയും ആ സിഒയുടെ ആപേക്ഷിക പ്രാധാന്യത്തെയും അടിസ്ഥാനമാക്കി ആ സിഒയുടെ ആകെ മാർക്ക് നിങ്ങൾ തീരുമാനിക്കുകയും തുടർന്ന് സിഒയുടെ വൈജ്ഞാനിക തലത്തിൽ എത്ര മാർക്ക് താഴ്ന്ന തലങ്ങളിൽ എത്ര മാർക്ക് എന്നിവ തീരുമാനിക്കുകയും ചെയ്യുക ഇപ്പോൾ ഈ അസ്സസ്സ്മെന്റ് ഇനങ്ങൾ SEE ഉപകരണത്തിന്റെ ഘടനയെ അടിസ്ഥാനമാക്കി യോജിപ്പിക്കണം ഇത് ഒരു അധിക ഘട്ടമാണ് കാരണം പലപ്പോഴും SEE ക്ക് ഒരു നിശ്ചിത ഘടന ഉണ്ടാവുകയും അന്തിമ SEE ഉപകരണം സൃഷ്ടിക്കുന്നതിന് അസ്സസ്സ്മെന്റ് ഇനങ്ങൾ ഉചിതമായി സംയോജിപ്പിക്കുകയും വേണം അതിന് സാധ്യമായ ഘടനകളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം അതിനാൽ അവ വിശദാംശങ്ങളിൽ വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പക്ഷേ മിക്കവയും മൊത്തത്തിൽ 100 മാർക്കിനുള്ളതാണ് SEE CIE അനുപാതങ്ങൾ 5050 ആണെങ്കിൽ പിന്നീട് അവ 50 ആയി കണക്കാക്കാം അപ്പോൾ ഈ 100 മാർക്ക് 50 ആയി സ്കെയിൽ ചെയ്യും അവ 2080 CIE SEE എന്ന അനുപാതത്തിലാണെങ്കിൽ അവ 80 ആയി സ്കെയിൽ ചെയ്യപ്പെടാം അതിനാൽ ആത്യന്തികമായി അവ വ്യത്യസ്തമായി സ്കെയിൽ ചെയ്യപ്പെടാം പക്ഷേ ചോദ്യപേപ്പർ പൊതുവെ ആകെ 100 മാർക്കിന് ഉള്ളതും സാധാരണയായി രേഖാമൂലമുള്ള പ്രതികരണം ആവശ്യമുള്ളതും സാധാരണയായി ഇന്ത്യൻ സാഹചര്യത്തിൽ 3 മണിക്കൂർ കൊണ്ട് തീരേണ്ടതുമാണ് SEE ചോദ്യപേപ്പറിനായി 3 ജനപ്രിയ ഘടനകൾ ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ട് നിരവധി വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിലും വിശാലമായി മൂന്ന് തരം ഘടനകൾ ലഭ്യമാണ് തരം 1 8 ചോദ്യങ്ങളുണ്ടാവും എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ മാർക്ക് ആയിരിക്കും 5 പൂർണ്ണ ചോദ്യങ്ങൾക്ക് വിദ്യാർത്ഥികൾ ഉത്തരം നൽകേണ്ടതുണ്ട് അതായത് ഓരോ ചോദ്യത്തിനും 20 മാർക്ക് വീതം ഓരോ ചോദ്യത്തിനും a b c d പോലുള്ള ഉപ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ സാധാരണയായി ഉപ ചോദ്യങ്ങൾ 4 ൽ കൂടരുത് മാത്രമല്ല ഈ ഉപ ചോദ്യങ്ങൾക്കായി മാർക്ക് അനുവദിക്കുന്നത് തികച്ചും സ്വേച്ഛയമായിരിക്കും എനിക്ക് 3 ഉപ ചോദ്യങ്ങൾ ഉണ്ടായേക്കാം അതിനാൽ എനിക്ക് 4 4 12 പോലുള്ള മാർക്കുകൾ 20 ആയി ചേർക്കാം അല്ലെങ്കിൽ എനിക്ക് 6 6 14 ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് 3 5 12 ഉണ്ടായിരിക്കാം പ്രായോഗികമായി ഇത് സ്വേച്ഛയമാണ് ഉപ ചോദ്യങ്ങളുടെ എണ്ണവും ഓരോ ഉപ ചോദ്യത്തിനും അനുവദിച്ച മാർക്കും സംബന്ധിച്ച് ഇൻസ്ട്രക്ടർക്ക് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമുണ്ട് എന്നിരുന്നാലും അത്തരമൊരു ആസൂത്രണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഇനം ബാങ്ക് സൃഷ്ടിക്കുന്നത് വളരെ പ്രയാസകരമാണെന്ന് നമ്മൾ പിന്നീട് കാണും അതിനാൽ ഉപ ചോദ്യങ്ങൾക്കും ഒരുതരം ഘടന ഉണ്ടായിരിക്കുന്നത് അഭികാമ്യമാണ് ഇനം ബാങ്കുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അത് പരിശോധിക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ഘടന ഒരു കാലത്ത് വളരെ പ്രചാരത്തിലായിരുന്നു എന്നാൽ ഇന്ന് ഇത് ഒരു സ്ഥാപനവും ഇഷ്ടപ്പെടുന്നില്ല കാരണം ഒബിഇ ചട്ടക്കൂട് വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ചില സിഒകളെക്കുറിച്ച് നമുക്ക് പ്രകടന ഡാറ്റയൊന്നും ലഭിച്ചേക്കില്ല എന്നതാണ് ബലഹീനത പ്രത്യേകിച്ചും അവസാന ഭാഗവുമായി ബന്ധപ്പെട്ട സിഒകൾ വിദ്യാർത്ഥികളും ചിലപ്പോൾ അധ്യാപകനും ഒഴിവാക്കിയേക്കാം അതിനാൽ ഉത്തരം നൽകേണ്ട 5 ചോദ്യങ്ങളും സിലബസിന്റെ ആദ്യ ഭാഗത്തിന്റേതാണ് ആ ഭാഗവുമായി ബന്ധപ്പെട്ട സിഒകൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത് വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു അതിനാൽ ഈ ഘടന ഇന്ന് പൂർണമായും സ്വീകാര്യമല്ല വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഈ ഘടന പിന്തുടരുന്നത് പ്രായോഗികമായി ഇത് അനുകൂലമല്ല അതിനാൽ നമ്മൾ ഇതിനെപറ്റി കൂടുതൽ ചർച്ച ഇനി ചെയ്യില്ല തരം 2 ഒബിഇ സ്വീകരിച്ച മിക്ക ചട്ടക്കൂടുകളിലും സിലബസ് സാധാരണയായി 5 യൂണിറ്റുകളായി ക്രമീകരിച്ചിരിക്കുന്നു കൂടാതെ സെമസ്റ്റർ അവസാന പരീക്ഷാ ചോദ്യപേപ്പറിന് ഓരോ യൂണിറ്റിനും അനുബന്ധമായി 2 ചോദ്യങ്ങൾ ഉണ്ട് ഈ രണ്ട് ചോദ്യങ്ങളിൽ നിന്നും ഒരു മുഴുവൻ ചോദ്യത്തിന് വിദ്യാർത്ഥി ഉത്തരം നൽകേണ്ടതുണ്ട് അതിനർത്ഥം ഒരു ചോയ്സ് ഉണ്ട് പക്ഷേ ആന്തരിക ചോയ്സ് ആണ് 2 ചോദ്യങ്ങൾ ഒരേ യൂണിറ്റിൽ നിന്നാണ് കൂടാതെ വിദ്യാർത്ഥി അവയിലൊന്നിന് ഉത്തരം നൽകേണ്ടതുണ്ട് അതായത് ഓരോ യൂണിറ്റിൽ നിന്നുമുള്ള ഒരു ചോദ്യത്തിന് വിദ്യാർത്ഥി ഉത്തരം നൽകണം അതിനാൽ 10 ചോദ്യങ്ങളുണ്ട് എല്ലാം തുല്യ മാർക്ക് ഉള്ളതും വിദ്യാർത്ഥികൾ 5 ന് മാത്രമേ ഉത്തരം നൽകേണ്ടതുള്ളൂ ഒരുപാട് ചോയ്സ് ഉണ്ടെന്ന് തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ ചോയിസ് 2 ൽ നിന്ന് 1 തിരഞ്ഞെടുക്കൽ ആയി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ യൂണിറ്റ് 1 ൽ നിന്ന് 2 ചോദ്യങ്ങൾ ഉണ്ട് വിദ്യാർത്ഥി 1 ചോദ്യത്തിന് ഉത്തരം നൽകണം അതുപോലെ യൂണിറ്റ് 2 ൽ നിന്ന് 2 വിദ്യാർത്ഥി 1 ചോദ്യത്തിന് ഉത്തരം നൽകണം ആ രീതിയിൽ ഇത് എല്ലായ്പ്പോഴും 2 ൽ നിന്ന് 1 തിരഞ്ഞെടുക്കലാണ് വ്യക്തമായും എല്ലാ സിഒകളെയും സംബന്ധിച്ച പ്രകടന ഡാറ്റ നമുക്ക് ലഭിക്കുന്നു എന്നതാണ് നേട്ടം കാരണം 5 യൂണിറ്റുകൾ അടിസ്ഥാനപരമായി നിശ്ചിത എണ്ണം സിഒകളായി എഴുതിയിരിക്കുന്നു ഇത് വളരെ ജനപ്രിയമാണ് കൂടാതെ നിരവധി സ്വയംഭരണ സ്ഥാപനങ്ങളും പല സർവകലാശാലകളും ഈ ദിവസങ്ങളിൽ ഈ രീതി പ്രധാനമായും കൈക്കൊള്ളുന്നതായി കാണുന്നു അത്തരമൊരു ചോദ്യപേപ്പർ സജ്ജീകരിക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ വ്യക്തമായും എല്ലാ സിഓയെയും അഭിസംബോധന ചെയ്യണം എന്നാൽ പ്രധാനപ്പെട്ട കാര്യംരണ്ട് ചോദ്യങ്ങളിൽ ഒന്ന് എന്ന ചോയ്സ് നിലവിലുണ്ട് എന്നതാണ് ഉദാഹരണത്തിന് ആദ്യത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട ചോയ്സ് നിലവിലുള്ള ചോദ്യം 1 ഉം 2 ഉം എന്നാൽ അവ രണ്ടും ഒരേ സിഒയെ അഭിസംബോധന ചെയ്യണം മാത്രമല്ല ഘടന യുക്തിസഹമായി സമാനമായിരിക്കണം എന്നാൽ മാത്രമേ സിഒകളുടെ നേട്ടം നിർണ്ണയിക്കാൻ പ്രകടന ഡാറ്റ യുക്തിസഹമായി ഉപയോഗിക്കാനാകൂ ചോദ്യം 1 CO1 CO2 എന്നിവയെ അഭിസംബോധന ചെയ്യുന്നുവെങ്കിൽ ചോയിസായി കൊടുത്തിരിക്കുന്ന ചോദ്യം 2 ഉം CO1 CO2 എന്നിവയെ അഭിസംബോധന ചെയ്യണം കൂടാതെ ഒരു ചോദ്യത്തിന് CO1 ന് വെയിറ്റേജ് 8 നൽകുകയും CO2 ന് വെയിറ്റേജ് 12 നൽകുകയും ചെയ്താൽ ചോയിസുള്ളതിനും സമാനമായിരിക്കണം അതായത് CO1 വീണ്ടും 8 മാർക്ക് CO2 12 മാർക്ക് ഉപവിഭാഗം വ്യത്യാസപ്പെടാം പക്ഷേ അനുവദിച്ച മൊത്തം മാർക്ക് സമാനമായിരിക്കണം തിരഞ്ഞെടുത്ത കോഗ്നിറ്റീവ് ലെവലും ഘടനയിൽ സമാനമായിരിക്കണം ഒരു വ്യതിയാനവും ഉണ്ടാകരുത് എന്ന് ഇതിനർത്ഥമില്ല പക്ഷേ വ്യത്യാസം ചുരുങ്ങിയതായിരിക്കണം അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചോയിസിനായി വാഗ്ദാനം ചെയ്യുന്ന 2 ചോദ്യങ്ങൾ അഭിസംബോധന ചെയ്ത സിഒകളുടെയും കോഗ്നിറ്റീവ് ലെവലുകളുടെയും കാര്യത്തിൽ സമാനമായിരിക്കണം അതിനാൽ നമുക്ക് ലഭിക്കുന്ന പ്രകടന ഡാറ്റ സിഒകളുടെ നേട്ടങ്ങൾ നിർണ്ണയിക്കുന്നതിന് വിശ്വസനീയമായ ഒന്നായിരിക്കും അതിനാൽ ഓരോ സിഒയ്ക്കും അനുവദിച്ച മാർക്ക് നേരത്തെ ചർച്ച ചെയ്തതുപോലെ കണക്കിലെടുക്കണം ആ സിഒക്കായി നീക്കിവച്ചിരിക്കുന്ന ക്ലാസ് റൂം സമയത്തിന്റെ അനുപാതവും ആ സിഒയുടെ ആപേക്ഷിക പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ടറുടെ ആത്മനിഷ്ഠമായ ധാരണയും കണക്കിലെടുക്കണം സിഐഇയെപ്പോലെ SEE ക്കും മാർക്ക് നിർണ്ണയിക്കാൻ അതേ യുക്തി ഉപയോഗിക്കുക ചില യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ കൂടുതലായി കാണപ്പെടുന്ന ഒരു മൂന്നാം തരം ഉണ്ട് അവിടെ ചോദ്യപേപ്പറിന് രണ്ട് ഭാഗങ്ങളുണ്ട് പാർട്ട് എ പാർട്ട് ബി പാർട്ട് എ യിൽ മൊത്തം സിലബസിൽ നിന്നുള്ള പൂർണ്ണമായി ഒബ്ജക്റ്റിവ് ടൈപ്പ് ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നു മൊത്തം 100 മാർക്കിൽ ഇതിന് 10 മുതൽ 20 മാർക്ക് വരെയുണ്ടാകാം ശേഷിക്കുന്ന മാർക്ക് പാർട്ട് ബി ക്കും പാർട്ട് ബി യുടെ ഘടന തരം 2 ലെ SEE ചോദ്യപേപ്പറിന് സമാനമാണ് അതായത് സിലബസ് 5 യൂണിറ്റുകളായി ക്രമീകരിച്ചിരിക്കുന്നു ഓരോ യൂണിറ്റിനും 2 ചോദ്യങ്ങളുണ്ട് ആ 2 ചോദ്യങ്ങളിൽ ഒനിന് വിദ്യാർത്ഥി ഉത്തരം നൽകണം 2 ചോയിസിൽ 1 ആകെ 10 അങ്ങനെ ഓരോ യൂണിറ്റിൽ നിന്നും 1 വച്ച് വിദ്യാർത്ഥിക്ക് ആകെ 5 ഉത്തരം നൽകണം ഓരോ ചോദ്യത്തിനും ഇപ്പോൾ കുറഞ്ഞ മാർക്ക് ഉണ്ടായിരിക്കും എന്നതാണ് ഒരേയൊരു വ്യത്യാസം കാരണം കുറച്ച് മാർക്ക് പാർട്ട് എയിലേക്ക് നീക്കിവച്ചിരിക്കുന്നു ഉദാഹരണത്തിന് പാർട്ട് എയ്ക്ക് 20 മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാർട്ട് ബിക്ക് 80 മാർക്ക് മാത്രമേ ലഭിക്കുള്ളൂ അതിനാൽ 80 മാർക്ക് 5 ചോദ്യങ്ങളിൽ തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു അപ്പോൾ ഓരോ ചോദ്യത്തിനും 20 മാർക്കിന് പകരം 16 മാർക്ക് മാത്രമേ ഉണ്ടാകൂ അല്ലാത്തപക്ഷം ഘടന SEE ചോദ്യപേപ്പർ തരം II ന് സമാനമാണ് ഇപ്പോൾ SEE ചോദ്യപേപ്പർ സജ്ജീകരിക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ വളരെ ലളിതമാണ് പാർട്ട് എ എല്ലാ സിഒകളെയും അഭിസംബോധന ചെയ്യണം തുടർന്ന് പാർട്ട് എ യിൽ എത്ര ഒബ്ജക്ടീവ് തരം ചോദ്യങ്ങൾ ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കി ഓരോ സിഒയ്ക്കും എത്രയെണ്ണം നീക്കിവയ്ക്കണമെന്ന് ഒരാൾക്ക് തീരുമാനിക്കാം വീണ്ടും ഓരോ സിഒയുടെയും ആപേക്ഷിക പ്രാധാന്യം ഉപയോഗിച്ച് ഓരോ സിഒയ്ക്കും ചെലവഴിച്ച സമയത്തെ അടിസ്ഥാനമാക്കി ഒരു സിഒക്ക് എത്ര ചോദ്യങ്ങൾ വേണമെന്ന് തീരുമാനിക്കാം ഇപ്പോൾ പാർട്ട് ബി യുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ SEE ചോദ്യ പേപ്പർ തരം 2 ന് തുല്യമാണ് കാരണം SEE ചോദ്യ പേപ്പർ തരം 2 ൽ നിന്നും ശരിക്കും ഒരു വ്യത്യാസവുമില്ല ഒരേയൊരു വ്യത്യാസം മാർക്കിലുള്ള കുറവാണ് അല്ലെങ്കിൽ അതേ ഘടനയാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് CIE SEE എന്നിവയ്ക്കായുള്ള അസ്സസ്സ്മെന്റ് പദ്ധതിയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച പൂർത്തിയാകുന്നു അതിനാൽ നൽകിയിരിക്കുന്ന ഘടന അനുസരിച്ച് നിങ്ങളുടെ കോഴ്സിന്റെ കണ്ടിന്യുവസ് ഇന്റെർണൽ ഇവാല്യുവേഷന്റെ ഭാഗമായ ഒരു ടെസ്റ്റ് ടി 1 ഉണ്ടാക്കുക എന്നതാണ് വ്യായാമം അഭിസംബോധന ചെയ്യപ്പെടുന്ന സിഒകൾ അവയുടെ വൈജ്ഞാനിക നിലകൾ ടി 1 നടത്തപ്പെടുന്ന സമയത്തിന്റെ ഷെഡ്യൂൾപ്രസക്തമായ സിഒകൾ എപ്പോൾ ക്ലാസ് റൂമിൽ അഭിസംബോധന ചെയ്യപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിക്കുക ടൈപ്പ് 2 അല്ലെങ്കിൽ ടൈപ്പ് 3 ന്റെ ഘടനയിൽ ഒരു SEE ഉപകരണം രൂപകൽപ്പന ചെയ്യുക അടിസ്ഥാനപരമായി ടൈപ്പ് മൂന്നിൽ ഒബ്ജക്ടീവ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ചില മാർക്ക് നൽകിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ വല്യ വ്യത്യാസമില്ല ഈ വ്യായാമങ്ങളുടെ ഫലങ്ങൾ tale iisctagmail com ൽ പങ്കിട്ടതിന് നന്ദി അടുത്ത യൂണിറ്റിൽ ഒരു ഐറ്റം ബാങ്ക് രൂപകൽപ്പന ചെയ്യുന്ന പ്രക്രിയ നമ്മൾ മനസിലാക്കും എന്താണ് ഒരു ഐറ്റം ബാങ്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഒരു ഐറ്റം ബാങ്ക് വേണ്ടത് ഐറ്റം ബാങ്കിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരു ഐറ്റം ബാങ്കിന്റെ ഘടന എന്താണ് നമ്മൾ എങ്ങനെ ഒരു ഐറ്റം ബാങ്ക് രൂപകൽപ്പന ചെയ്യും എന്നൊക്കെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി ഇതോടെ നമ്മൾ ഈ യൂണിറ്റ് ഉപസംഹരിക്കുന്നു